ബെസ്സൽസ് ഇനിക്വാളിറ്റി ആൻഡ് പർസേവൽസ് ഐഡന്റിറ്റി അപ്പോൾവീണ്ടും സ്വാഗതം ഈ ലെക്ചർ 39 ബെസ്സൽസ് ഇനിക്വാളിറ്റിയെയും പർസേവൽസ് ഐഡന്റിറ്റിയെയുംകുറിച്ചാണ് അപ്പോൾ ബെസ്സൽസ് ഇനിക്വാളിറ്റിയെകുറിച്ചും മറ്റൊന്ന് ഒരു ഐഡന്റിറ്റിയായി മാറുന്ന ഫലത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് പർസേവൽസ് ഐഡന്റിറ്റിയെയും അതിന്റെ ചില ആപ്പ്ളിക്കേഷനെക്കുറിച്ചും നമ്മൾ ഈ ലെക്ചറിൽ ചർച്ച ചെയ്യും അതിനാൽ ബെസ്സൽസ് ഇനിക്വാളിറ്റിയെകുറിച്ച് നമുക് ആദ്യത്തെ സിദ്ധാന്തമുണ്ട് അത് പറയുന്നത് f ഇന്റർവെൽ ലെ ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക് ഇനിപ്പറയുന്ന ഇനിക്വാളിറ്റിഉണ്ട് ഇവിടെ a യും b യും f ന്റെ ഫോറിയർ കോഎഫിഷ്യന്റ് ആണ് നമുക്കുള്ള സ്റ്റാൻഡേർഡ് നോട്ടേഷനുകളാണ് അതിനാൽ ഈ സിദ്ധാന്തത്തിന്റെ തെളിവ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വളരെ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ നമ്മൾ ഈ സ്ക്വയർ ടേം പരിഗണിക്കുകയും അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്താൽ സ്ക്വയർ ടേമിൽ എന്താണ് ഉള്ളത് നമുക് f ഉണ്ട് തുടർന്ന് യഥാർത്ഥത്തിൽ ഫോറിയർ സീരീസ് കുറയ്ക്കുന്നു വെട്ടിച്ചുരുക്കിയ ഫോറിയർ സീരീസ് n പദങ്ങൾക് ശേഷം വെട്ടിച്ചുരുക്കൽ നടത്തുന്നു അതിനാൽ ഇവിടെ സംഗ്രഹം k ൽ നിന്ന് 1 ലേക്ക് നീങ്ങുന്നു നമുക് സ്റ്റാൻഡേർഡ് ഫോറിയർ കോഎഫിഷ്യന്റുകൾ അല്ലെങ്കിൽ ഫോറിയർ സീരീസ് ഉണ്ട് ഇവിടെ ആദ്യ പദം കോൺസ്റ്റന്റ് പദത്തെയാണ് കണക്കാക്കുന്നത് അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ വ്യത്യാസം എടുക്കുന്നു തുടർന്ന് അത് സ്ക്വയർ ചെയ്യുന്നു നമുക് ഈ ഇന്റെഗ്രേണ്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഈ കേസിൽ ഈ ഇന്റഗ്രൽ ഉറപ്പായും 0 ന് തുല്യമായതിനേക്കാൾ വലുതായിരിക്കും അതിനാൽ ഈ ഇനിക്വാളിറ്റിയിൽ നിന്ന് ബെസ്സലിന്റെ ഇനിക്വാളിറ്റിBessel's Inequality എന്ന് വിളിക്കപ്പെടുന്ന ഇത് എങ്ങനെ കൃത്യമായി ലഭിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ കാണും അതിനാൽ ഈ ഇനിക്വാളിറ്റി ഒരു വ്യക്തമായ ഫലമോ സാധാരണ ഫലമോ ആയതിനാൽ ഇവിടെ ഇന്റെഗ്രേണ്ട് 0 ന് തുല്യമാണ് അതിനാൽ നമ്മൾ സ്ക്വയർ ടേം തുറക്കുംകാരണം ഇത് മുഴുവൻ ചതുരമാണ് അത് പോലെ മൂന്ന് പദങ്ങളുണ്ട് abc2 അതിനാൽ നമുക് ഈ ഫോർമുല a2b2c22ab2ac2bc ഇതുപോലെ ലഭിക്കും അതിനാൽ ഈ പദങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ പശ്ചാത്തലത്തിൽ കാണാം അതിനാൽആദ്യ പദം cos sin ak cosbk sin അത് അവിടെയുണ്ട് പിന്നെ നമുക് രണ്ടാമത്തെ പദം a024എന്ന ലഭിക്കും കൂടാതെ ഇന്റഗ്രൽ മുതൽ വരെ ആയിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് നമുക് 2ലഭിക്കും അതിനാൽ ഇത് a0242ആണ് ഇതിന്റെ ഫലമായി നമുക് a022 എന്ന് ലഭിക്കും ശരി അപ്പോൾ മൂന്നാമത്തേതിന്റെ വോൾ സ്ക്വയർ നമ്മുടെ പക്കലുണ്ട്അതാണ് ഇവിടെ വോൾ സ്ക്വയർ പദവുംഅതിനാൽ ഇവയാണ് സ്ക്വയർ ഉള്ള മൂന്ന് പദങ്ങൾ ഇതും പിന്നെ ഇതും ഇപ്പോൾ നമുക് പ്രോഡക്റ്റ് ഉണ്ട് അതിനാൽ ആദ്യം ആദ്യ രണ്ട് പദങ്ങളുടെ പ്രോഡക്റ്റ് നമ്മൾ പരിഗണിക്കും അതായത് a02കൊണ്ട് f നെ ഗുണിക്കും അപ്പോൾ അത് ഇരട്ടിയാകും അതിനാൽ ഈ 2 റദ്ദാക്കപ്പെടും കൂടാതെ നമുക് a0 f ഉണ്ട് അത് സ്വാഭാവികമായും ചിഹ്നം വരും കാരണം അവയിലൊന്ന് അവിടെയുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം f ന്റെ പ്രോഡക്റ്റ് ഉണ്ട് അതിനാൽ തീർച്ചയായും 2 നൊപ്പം അങ്ങനെ 2 ഉം f ഉം ഈ സംഗ്രഹവും ഉണ്ട് തുടർന്ന് തുടർന്ന് അവസാന ടേം 2a02 പിന്നെ ഈ തുക എന്നിവയുണ്ട് അതിനാൽ നമുക് a0 ഉണ്ട് മാത്രമല്ല 2 2 നോടൊപ്പം റദ്ദ് ആക്കപ്പെടും ഈ സംഗ്രഹം dx ന്മേൽ നമുക്ക് ഇന്റഗ്രൽ ഉണ്ട് അങ്ങനെ എല്ലാം 0 ന് തുല്യമായതിനേക്കാൾ വലുതായിരിക്കും അതിനാൽ ഇപ്പോൾ ഈ ഇനിക്വാളിറ്റി ഉള്ളതിനാൽ നമ്മൾ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ ഓർത്തോഗോണാലിറ്റിയും ഫോറിയർ കോഎഫിഷ്യന്റുകളുടെ നിർവചനവും ഉപയോഗിക്കും അതിനാൽ ഈ രണ്ടിന്റെയും സഹായത്തോടെ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ ഓർത്തോഗോണാലിറ്റി കാരണം പല പദങ്ങളും അപ്രത്യക്ഷമാകുന്ന പുതിയ ഇനിക്വാളിറ്റി നമുക്ക് ഇപ്പോൾ കാണാനാകും അതിനാൽ ആദ്യ പദം നിലനിൽക്കുംഅതായത് നമുക്കുള്ളത് ആണ് രണ്ടാമത്തെ പദം ഇതിനകം ലളിതമാക്കിയ ഒരു പദമാണ് അത് a022ആണ് മൂന്നാമത്തേതിൽ ഉള്ളിലുള്ള തുകയുടെ സ്ക്വയർ വീണ്ടും നമുക്കുണ്ട് അതിനാൽ ഈ സ്ക്വയർ പറയുന്നത് നമുക്ക് ഓരോ ടേമിന്റെയും സ്ക്വയറും രണ്ട് ഫംഗ്ഷനുകളുടെ 2 മടങ്ങ് ഗുണനവും ഉണ്ടെന്നാണ് അതിനാൽ ഇപ്പോൾ രസകരമായത് എന്തെന്നാൽ നമുക് ആദ്യ പദം ak2 cos2 ഉണ്ട് ഉദാഹരണത്തിന് അതാണ് ആദ്യ പദം നമുക്ക് ഒരുമിച്ച് ഇന്റെഗ്രേലുണ്ട് അതിനാൽ ആദ്യ പദം ഇങ്ങനെയാണ് പിന്നെ സമാനമായ ഒരു പദം bk2 sin2 ഉണ്ട് മറ്റ് പദങ്ങളിൽ cos kx sin kx എന്നിവയുടെ ഗുണനം ഉണ്ടാകും അതിനാൽ നമുക്ക് ഈ ആദ്യം പദം ചർച്ച ചെയ്യാം അപ്പോൾ നമുക് ak2 ഉണ്ട് മാത്രമല്ല ട്രിഗണോമെട്രിക് സിസ്റ്റത്തിൽ നിങ്ങൾ ഇത് ഓർക്കുന്നുവെങ്കിൽ ഇത് ഒരേ വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കുമ്പോൾ ഒരേ ഫംഗ്ഷൻ രണ്ട് മടങ്ങ് വർദ്ധിക്കുന്നു അപ്പോൾ മൂല്യം ആകും അപ്പോൾ ഇവിടെ നമുക് ak2 ഉണ്ട് മാത്രമല്ല അതുപോലെ രണ്ടാമത്തെ സ്ക്വയറിൽ നിന്ന്bk2 sin2 വരുന്നു അവിടെയും നിങ്ങൾക്കൊരു സമാന പദം ലഭിക്കും അതായത് bk2 വരും ak bk cos sin എന്നിവയുടെ 2 മടങ്ങ് പ്രോഡക്റ്റ് നമ്മുടെ പക്കലുള്ളപ്പോൾ ഈ എല്ലാ പദങ്ങളിലും നമുക് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ട് ഒന്ന് കോസ് കുടുംബത്തിൽ നിന്നും മറ്റൊന്ന് സൈൻ കുടുംബത്തിൽ നിന്നും കൂടാതെ ആ പദം 0 ആയിരിക്കും എന്ന് ഓർത്തോഗോണാലിറ്റി പറയുന്നു അതിനാൽ ഈ ഇന്റെഗ്രേലിന്റെ ലളിതമായ രൂപം നമുക് ഇപ്പോൾ ഉണ്ട്അതിൽ കുറച്ച് പദങ്ങൾ മാത്രമേ നിലനിൽക്കൂ ഒന്ന് ഇതാണ് ഇതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ആ സംഗ്രഹം തീർച്ചയായും പ്രവർത്തിക്കുന്നു ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ ഓർത്തോഗോണാലിറ്റി കാരണം മറ്റുള്ളവയെല്ലാം 0 ആകും ഇപ്പോൾ നമ്മൾ ഈ പദത്തിലാണ് ഇവിടെ a0 ആകും മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അതാണ് ഫോറിയർ കോഎഫിഷ്യന്റ് a0 ഇതിനെ നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയാൽ a02 ലഭിക്കും കാരണം നിങ്ങൾ ഈ ഇന്റർഗ്രേലിനെ കൊണ്ട് ഗുണിക്കുകയും കൊണ്ട് ഹരിക്കുകയും ചെയ്താൽ നമുക് ലഭിക്കുന്നത് ഇതായിരിക്കും അതിനാൽ ഇവിടെ ഈ ഇന്റഗ്രൽ a0 ആകും അപ്പോൾ നമുക്കവിടെ a02 ഉണ്ടാകും അതിനാൽ അത് നല്ലതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക് ലഭിക്കുന്നത് a02 ആണ് ഇപ്പോൾ ഈ പദത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 ഉണ്ട് നമുക്ക് f ഉം പിന്നെ ഈ തുകയും ak cos bk sin ഉം ഉണ്ട് അപ്പോൾ എന്താണ് നമുക്കുള്ളത് നമുക്കുള്ളത് അതുപോലെ നമുക്ക് f നൊപ്പം sin ഉണ്ട് വീണ്ടും നമുക്ക് ഇത് ഫൊറിയർ കോഎഫിഷ്യന്റ്മായി ബന്ധപ്പെടുത്താംകാരണം അത് കൃത്യമായി ak യോടൊപ്പവും പിന്നെ നോടും യോജിക്കുന്നു അതിനാൽ ഇവിടെയും നമുക്ക് ak2 ലഭിക്കും അതുപോലെ ഇവിടെ നമുക് bk2 ലഭിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ പദം cos ആയിരിക്കാം പിന്നെ അവസാന ടേമിൽ നമുക്ക് a0 ഉം പിന്നെ ak cos bk sin ഉം ഉണ്ട് അതിനാൽ ഇതിന് എന്ത് സംഭവിക്കും നമ്മൾ ഈ പദം മുതൽ a02 a02 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ ഉദാഹരണത്തിന്cos dx നോടൊപ്പം അവിടെയുണ്ട് അതിനാൽ ഇത് വീണ്ടും ട്രിഗണോമെട്രിക് ആണ് ട്രിഗണോമെട്രിക് സിസ്റ്റത്തിൽ നിന്നും ഓർത്തോഗോണാലിറ്റി ഉപയോഗിച്ച് 1 ഉം ഇത് കോസ് കുടുംബത്തിലെ അംഗമായതിനാൽ ഇത് 0 ആയിരിക്കും വീണ്ടും 1 sin x ഉപയോഗിച്ച് നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതും 0 ആയിരിക്കും അതിനാൽ ഓർത്തോഗോണാലിറ്റി കാരണം അവസാന പദം പൂർണ്ണമായും 0 ആണ് എന്നിട്ട് നമുക്കുള്ള ഈ ഇനിക്വാളിറ്റി 0 ന് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കും അതിനാൽ ഈ പദവും ഈ പദവും അവ ഒന്നുതന്നെയാണ് അതിനാൽ നമുക് അവിടെയുണ്ട് കൂടാതെ ഇവിടെ നമുക് a02 യും a02 യും ഉണ്ട് അതിനാൽ അത് ലഘൂകരിക്കാം അതിനാൽ ആദ്യം നമുക് ഇത് പോലെ ലളിതവൽക്കരിച്ച f2 dx ഉണ്ട് നമുക് a02 2ഉണ്ട് കാരണം ഇത് a02 ആയിരുന്നു പിന്നെ നമുക് ഉണ്ട് കൂടാതെ 0 ൽ കൂടുതലോ തുല്യമോ ആയ ഇനിക്വാലിറ്റിയും ഉണ്ട് അത് ഇപ്പോൾ ബെസ്സൽസ് ഇനിക്വാലിറ്റി ആയി മാറുന്നു അതിനാൽ നമ്മൾ ഈ രണ്ട് പദങ്ങളും മറുവശത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ നമുക് ഫംഗ്ഷന്റെ ഇന്റഗ്രേൽ ആയ ഫൊറിയർ കോഎഫിഷ്യന്റുകളുമായി ബന്ധപ്പെട്ട ഈ നല്ല ഇനിക്വാലിറ്റി നമുക്കുണ്ട് കൂടാതെ പിന്നീട് ഈ ഇനിക്വാലിറ്റി പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇക്വാളിറ്റി ആയി മാറുമെന്ന് നിങ്ങൾ കാണും അതിനാൽ നമ്മൾ ഈ പരിധി എടുക്കുമ്പോൾ അത് കൃത്യമായി ബെസ്സൽസ് ഇനിക്വാലിറ്റി ആണ് ഇത് പരിധി എടുക്കുകയും പോകാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്യുന്നുനമുക്ക് അവിടെ ഉണ്ടാകും പിന്നെ ഇത് കൃത്യമായി ബെസ്സൽസ് ഇനിക്വാലിറ്റി ആണ് ഞാൻ പറഞ്ഞതുപോലെ പിന്നീട് പാർസെവൽസ് ഐഡന്റിറ്റിയിൽ നമ്മൾ നിരീക്ഷിക്കും ഈ ഇനിക്വാലിറ്റി യഥാർത്ഥത്തിൽ ഐഡന്റിറ്റിയാണ് ഇത് ഇക്വാളിറ്റിയാണ് തുല്യമായതിനേക്കാൾ കുറവല്ല എന്നാൽ ഇത് യഥാർത്ഥത്തിൽ തുല്യമാണ് അത് പിന്നീട് നമ്മൾ തെളിയിക്കും ഈ ഫലം പാർസേവലിന്റെ സിദ്ധാന്തം അല്ലെങ്കിൽ പാർസേവലിന്റെ ഐഡന്റിറ്റി എന്നാണ് അറിയപ്പെടുന്നത് എന്നിരുന്നാലും ഈ ഫലം തെളിയിക്കുന്നതിനായി നമ്മൾ കുറച്ച് കൂടുതൽ നിയന്ത്രണം എടുക്കേണ്ടതുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ കൂടുതൽ അനുമാനിക്കേണ്ടതില്ല ഈ ഐഡന്റിറ്റി ലഭിക്കുന്നതിന് പീസ്വേസ് കണ്ടിന്യൂറ്റി പോലെ നമ്മൾ മുന്പെടുത്ത അനുമാനങ്ങൾ മതിയാകും അതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനാൽ അത് തെളിയിക്കാൻ എളുപ്പത്തിനായി നമുക്ക് f ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് എടുക്കാം മാത്രമല്ല അതിന്റെ വൺ സൈഡഡ് ഡെറിവേറ്റിവ്സ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് യഥാർത്ഥത്തിൽ ബെസ്സൽസ് ഇനിക്വാലിറ്റിയിൽ ഉള്ള അതെ പദമാണ് നമുക്ക് ഇവിടെയും ഉള്ളത് ആകെയുള്ള വ്യത്യാസം ഇനിക്വാലിറ്റി ഇവിടെ ഇക്വാളിറ്റി ആയി മാറിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഉള്ളത് അപ്പോൾ ഇതാണ് പർസേവൽസ് ഐഡന്റിറ്റി ബെസ്സൽസ് ഇനിക്വാലിറ്റിയുടെ അതെ അനുമാനങ്ങളാണ് ഇതിനും ഉള്ളത് പക്ഷേ തെളിയിക്കാൻ എളുപ്പത്തിനായി ഇവിടെ ഫംഗ്ഷനിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് മാത്രമല്ല ഇവ കൃത്യമായും ഫംഗ്ഷന്റെ ഫൊറിയർ കോഎഫിഷ്യന്റാണ് അതിനാൽ ഡിറിച്ലെറ്റിന്റെ കൺവെർജൻസ് സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് ഫൊറിയർ സീരീസ് f ന്റെ കൺവെർജൻസ് ലഭിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ അധിക നിയന്ത്രണങ്ങൾ എടുത്തത് കാരണം ന്റെ റീജിയണിൽ നമുക്ക് ഡിറിച്ലെറ്റിന്റെ കൺവെർജൻസ് സിദ്ധാന്തം പ്രയോഗിക്കാൻ കഴിയും കാരണം f ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും മാത്രമല്ല അതിന്റെ വൺ സൈഡഡ് ഡെറിവേറ്റിവ്സ് നിലനിൽക്കുന്നുമുണ്ട് നമുക്ക് കൃത്യമായ ഇക്വാളിറ്റി ഉണ്ട് അതായത് ഫൊറിയർ സീരീസ് ഫംഗ്ഷൻ f ലേക്ക് കൺവെർജ് ചെയ്യുന്നു നമ്മൾ അവിടെ കണ്ടിന്യൂറ്റി അനുമാനീക്കുന്നില്ലെങ്കിൽ നമുക്ക് ശരാശരി മൂല്യം ഉണ്ടായിരിക്കണം ഫലങ്ങൾ വീണ്ടും തെളിയിക്കാനാകും എന്നിരുന്നാലും ഇത് അൽപ്പം ദൈർഘ്യമേറിയതാണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞ ഇക്വാലിറ്റിയെ f കൊണ്ട് ഗുണിക്കുകയും എന്നിട്ട് മുതൽ വരെ ഓരോ പദങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക ഇടത് വശത്ത് നമുക്ക് ലഭിക്കും കൂടാതെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ എക്സ്പ്രെഷൻ ലഭിക്കും വലത് വശത്ത് നമുക്ക് a02ലഭിക്കും നമ്മൾ f കൊണ്ട് ഗുണിക്കുകയും എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്താൽ ഇവിടെയും നമ്മൾ f കൊണ്ട് ഗുണിക്കുകയും എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ വീണ്ടും നമ്മൾ ഫൊറിയർ കോഎഫിഷ്യന്റ് ഉപയോഗിക്കുംഫൊറിയർ കോഫിഫിഷ്യന്റുകളുടെ നിർവചനം ഇവിടെ ഉദാഹരണത്തിന് 1 ആണ്പുറത്തെടുക്കാം ഇത് വീണ്ടും an ഉം ഇത് bn ഉം ആകും അതിനാൽ നമുക്ക് ഈ ഇക്വാളിറ്റി ഉണ്ട് ഇതിനെ നമ്മൾ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് പർസേവൽസ് ഐഡന്റിറ്റി ലഭിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാർസെവലിന്റെ ഐഡന്റിറ്റി പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് തെളിയിക്കാനാകുമെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട്അതിനാൽ കണ്ടിന്യൂറ്റി നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നതിന് നമുക്ക് അധിക നിയന്ത്രണങ്ങളൊന്നും ആവശ്യമില്ല കൂടാതെ പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ഈ ഇന്റെർവെല്ലിൽ എടുക്കുകയും ചെയ്യും കണക്കുകൂട്ടലുകളെ ലളിതമാക്കാനായി മിക്ക ഫലങ്ങളും നമ്മൾ പരിഗണിക്കുന്നത് ൽ ആണ് എന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്റർവെൽ LL ൽ ആണ് വീണ്ടും നമുക്ക് പർസേവൽസ് ഐഡന്റിറ്റി ലഭിക്കും ഉദാഹരണത്തിന് ഇവിടെ ക്ക് പകരം L മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇവിടെ അത് L ആയിരിക്കും ഇതും L ആയിരിക്കും തുടർന്ന് എല്ലാം മുൻപത്തെ പോലെ തുടരും പർസേവൽസ് ഐഡന്റിറ്റി പിന്നെ പർസേവൽസ് അഥവാ ബെസ്സൽസ് ഇനിക്വാലിറ്റി നമുക്ക് ഇപ്പോൾ ചില ആപ്ലിക്കേഷനുകൾ നോക്കാം തീർച്ചയായും പർസേവൽസ് ഐഡന്റിറ്റി ആണ് കൂടുതൽ ഉപയോഗപ്രദം കാരണം ഈ കോഎഫിഷ്യന്റുകളുടെ ഇക്വാളിറ്റി നമുക്ക് കൂടുതൽ കൃത്യമായ ഒരു ഫലമാണ് അതിനാൽ സീരീസിന്റെ തുക വീണ്ടും തെളിയിക്കാൻ ഇത് പല കേസുകളിലും ഉപയോഗിക്കാം കാരണം ചുവടെയുള്ള ഉദാഹരണങ്ങളിൽ നമ്മൾ അത് കാണും ഉദാഹരണത്തിന് f x എന്ന ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് പരിഗണിക്കുക അതിനാൽ f x എന്ന ഫൊറിയർ സീരീസ് ഇതിനകം തന്നെ നൽകിയിരിക്കുന്നു മാത്രമല്ല ഇന്റെർവെല്ലിനെക്കുറിച്ച് നമ്മൾ മറ്റൊന്നും പരാമർശിച്ചിട്ടില്ല തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് നമ്മൾ അത് വേർതിരിച്ചെടുക്കണം അതിനാൽ അതിനാൽ ഈ ഫോറിയർ സീരീസിനായി പാർസെവലിന്റെ ഐഡന്റിറ്റി എഴുതേണ്ടതുണ്ടോ എന്നതാണ് ആദ്യ ചോദ്യം രണ്ടാമത്തേത് നമ്മൾ പാർസേവലിന്റെ ഐഡന്റിറ്റി എഴുതിക്കഴിഞ്ഞാൽ 114124134 ഈ സീരീസിന്റെ തുക ഇവിടെ നിർണ്ണയിക്കേണ്ടതുണ്ടോ എന്നതാണ് അപ്പോൾ രണ്ട് ടാസ്ക് ഉണ്ട് ആദ്യത്തേത് തന്നിരിക്കുന്ന ഫോറിയർ സീരീസിൽ നൽകിയിരിക്കുന്ന റിലേഷൻ f നായി നമുക്ക് പർസേവൽസ് ഐഡന്റിറ്റി എഴുതാം എവിടെയാണ് f എന്നതിന്റെ പിരീഡ് L എന്നും എന്താണ് കോഎഫിഷ്യന്റ് എന്നും നമ്മൾ തിരിച്ചറിയണം കാരണം പാർസേവലിന്റെ ഐഡന്റിറ്റി എഴുതുന്നതിന് നമുക്ക് ഫംഗ്ഷൻ ആവശ്യമാണ് അത് എന്തായാലും അവിടെ കൊടുത്തിരിക്കും നമുക്ക് ഫൊറിയർ കോഎഫിഷ്യന്റുകൾ ആവശ്യമാണ് അതും ഇവിടെ വ്യക്തമാണ് bn 's 0 ആണ് കാരണം സൈൻ പദം ഉണ്ടായിരിക്കില്ല മാത്രമല്ല നമുക്ക് cos nxLഉണ്ട് അതിനാൽ വീണ്ടും നേരിട്ട് L 2 ഉം bn 0 യും ആണ് കൂടാതെ ഇവിടെ an 0 ആണ് അതിനാൽ പ്രശ്നം വ്യക്തമായി നൽകാതെ തന്നെ ഈ കോഎഫിഷ്യന്റുകളായ bn 's an 's കൂടാതെ L ന്റെ മൂല്യം എന്നിവയും നമുക്ക് നൽകിയ ഫോറിയർ സീരീസിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും അതിനാൽ ഈ ഫൊറിയർ സീരീസ് ഉള്ളതിനാൽ നമ്മൾ ആദ്യം ഫൊറിയർ കോഫിഫിഷ്യന്റുകളും ഫോറിയർ സീരീസിന്റെ പിരീഡും കണ്ടെത്തേണ്ടത് സ്റ്റാൻഡേർഡ് ഫോറിയർ സീരീസുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇതിനകം L 2 ആണ് a0 ഇവിടെ നിന്ന് വരുന്നു കാരണം ആദ്യ പദം a0 2 ആണ് അത് 1 ആയി നൽകിയിരിക്കുന്നു അതിനാൽ a0 2 ആയിരിക്കും കൂടാതെ സൈൻ ടേം ഇല്ലാത്തതിനാൽ എല്ലാ bn കളും 0 ആയി മാറും മാത്രമല്ല an നേരത്തെ ഇവിടെ ഉണ്ട് അതിനാൽ ഈ കോഎഫിഷ്യന്റുകളെക്കുറിച്ചുള്ള അറിവ് വച്ച് പാർസേവലിന്റെ ഐഡന്റിറ്റിയുടെ നേരിട്ടുള്ള ഫലം നമുക്ക് പ്രയോഗിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് an നമുക്ക് a0 നമുക്ക് bn എന്നിവ ഉണ്ട് കൂടാതെ നമുക്ക് f ഉം ഉണ്ട് പാർസേവലിന്റെ ഐഡന്റിറ്റി എഴുതാൻ നമുക്ക് വേണ്ടത് ഇതാണ് ഇത് പാർസേവലിന്റെ ഐഡന്റിറ്റി ആണെന്ന് ഓർക്കുക വലതുവശത്ത് ഈ കോഎഫിഷ്യന്റുകൾ കൂട്ടും അതിനാൽ നമുക്ക് ഉണ്ട് കൂടാതെ വലതുവശത്ത്നമുക്ക് ഉണ്ട് അതിനാൽ നമുക്ക്42ഉണ്ട് പിന്നെ സമ്മേഷൻ പദം n 1 മുതൽ വരെ വ്യത്യാസപ്പെടുന്നു അതായത് നമുക്ക് ഉണ്ട് പിന്നെ ഉണ്ട് കൂടാതെ bn 2 0 ആണ് അതിനാൽ ഇത് പാർസെവൽ ഐഡന്റിറ്റിയാണ് അത് നമുക്ക് കുറച്ചുകൂടി ലളിതമാക്കാം പക്ഷേ ഇവിടെ നമുക്ക് x2 ഉണ്ട് അപ്പോൾ ഇന്റഗ്രൽ ആണ്തുടർന്ന് പകുതിയും അവിടെ ഇരിക്കുന്നു അതിനാൽ നമുക്ക് ഇത് ലളിതമാക്കാം നമുക്ക് 83ലഭിക്കും ഇടത് വശത്തുള്ള നമ്പർ കൂടാതെ വലതുവശത്ത് നമുക് ഇവിടെ നിന്ന് 2 വരുന്നു തുടർന്ന് നമുക് ഈ ബ്രാക്കറ്റ് ഉണ്ട് n ഈവൻ ആണെങ്കിൽ ഇത് 0 ആകും n ഓഡ്ഡ് ആണെങ്കിൽ ഇത് 2 ആകും അതായത് 4 അതിനാൽ ഈ ഓഡ്ഡ് പദങ്ങൾ മാത്രമേ നിലനിൽക്കൂ അതും 4 ഘടകങ്ങളോടെ അതിനാൽ 64 അവിടെ ദൃശ്യമാകും പുറത്തു നമുക് 4 ലഭിക്കും പിന്നെ നമുക്ക് n4 ഉണ്ട് അതിന്റെ ഫലമായി നമുക്ക് 14 34 54 മുതലായവ ലഭിക്കും അതിനാൽ ഇത് നേരിട്ട് വരുന്നത് പർസേവൽസ് ഐഡന്റിറ്റിയിൽ നിന്നാണ് 14 34 54 ഈ ഓഡ്ഡ് പാദങ്ങൾ നോടൊപ്പം കൂട്ടിച്ചേർക്കും ഇവിടെ നമുക്ക് 83ഉണ്ട് പിന്നെ നമുക്ക് 2 ഉണ്ട്അപ്പോൾ 83 2 നമുക്ക് 23ലഭിക്കും ഈ 23യെ 464 കൊണ്ട് ഗുണിക്കും ഇത് നമുക്ക് 496നൽകും ഈ സീരീസിന്റെ ആകെത്തുകയ്ക്ക് പവർ 4 ഉള്ള ഈ ഓഡ്ഡ് പദങ്ങൾ ഉണ്ട് ആവശ്യമുള്ള സീരീസിന്റെ ആകെത്തുക നേടുകയാണ് ലക്ഷ്യം അതിനാൽ പർസേവൽസ് ഐഡന്റിറ്റിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഫലത്തിൽ നിന്ന് നമുക് ഇപ്പോൾ ഇതാണ് ഉള്ളത് പക്ഷേ ചോദ്യം 114124134 ഇവിടെ എന്താണ് S സീരീസിന്റെ ആകെത്തുക എന്താണ് എന്നതാണ് ചോദ്യം അതിനാൽ ഇതിന്റെ സഹായത്തോടെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള സീരീസ് അല്ലെങ്കിൽ ആവശ്യമുള്ള സീരീസിന്റെ തുക ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് S ആണെങ്കിൽ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട് S എന്നത് സമ്പൂർണ്ണ തുകയാണ് അപ്പോൾ നമുക്ക് S നെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ഓഡ്ഡ് പദങ്ങൾ മാത്രം മറ്റൊന്ന് ഈവൻ പദങ്ങൾ മാത്രം അതിനാൽ ഇവയെല്ലാം ഈവൻ പദങ്ങലാണ് ഇവിടെ നമുക്ക് ഓഡ്ഡ് പാദങ്ങൾ ഉണ്ട്135 മുതലായവ ഇവിടെ നമുക് എല്ലാ വിചിത്രമായ പദങ്ങളും ഉണ്ട് അവ S പൂർത്തിയാക്കാൻ കൂട്ടിച്ചേർക്കുന്നു ഈ മൂല്യം ഞങ്ങൾക്ക് ഇതിനകം അറിയാമെന്നത് ശ്രദ്ധിക്കുക അത് 496 ആണ് കൂടാതെ 124നമ്മൾ പൊതുവായിട്ട് പുറത്തെടുത്താൽ ഇവിടെ നമുക്ക് എന്താണ് ലഭിക്കുക ആദ്യ പദം ഇവിടെ വീണ്ടും 1124134 ആകുംഇത് വീണ്ടും S ആകും ഇത് ഇവിടെ 124S എന്ന് എഴുതും ഈ S ഇവിടെ നിന്ന് ലഭിക്കാൻ നമുക്ക് ഇപ്പോൾ ഇത് ലളിതമാക്കാം കാരണം ഇടത് വശത്ത് നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് 496ഉണ്ട് കൂടാതെ ഇവിടെ നമുക്ക് 15 16 S ഉണ്ട് അതിനാൽ 15 16 S പിന്നെ 496ഇവിടെ നമുക്ക് 6 ഉണ്ട് അത് നമുക്ക് S 490 എന്ന് കിട്ടും അതിനാൽ അതാണ് ഫലം ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന സീരീസിന്റെ ആകെത്തുക ഇവിടെയുണ്ട് അതിന്റെ മൂല്യം 490 ആണ് ശരി അതിനാൽ നമ്മൾ ഒരു ഉദാഹരണം കൂടി ചെയ്യും അതാണ് ഇപ്പോൾ അവസാനത്തെ ഉദാഹരണം അതിനാൽ ഇന്റെർവെൽ x ൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നിർവ്വചിച്ചിരിക്കുന്ന ഫംഗ്ഷൻ x2 നായുള്ള ഫൊറിയർ സീരീസ് കണ്ടെത്തുക ഇവിടെ തുക 2 96 ആണെന്ന് കാണിക്കാൻ പാർസെവൽ ഐഡന്റിറ്റി ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ തുക എത്രയാണ് ഇത് വീണ്ടും 1 ആണ് ആദ്യ പദംഅതായത് 2 1 1 ആണ് അതിനാൽ 14 പിന്നെ നമുക്ക് രണ്ടാമത്തേത് 134ഉണ്ട് പിന്നെ 15 4മുതലായവ അതിനാൽ മുമ്പത്തെ കേസിൽ ഇതിനകം ഉരുത്തിരിഞ്ഞ തുകയാണിത് എന്നാൽ ഇപ്പോൾ ഈ തുക 2 96 എന്ന വ്യത്യസ്ത സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും കണ്ടെത്തും അതിനാൽ ലെക്ചർ നമ്പർ 36 ലെ മുൻ പ്രഭാഷണങ്ങളിലൊന്നിൽ നമ്മൾ ഇതിനകം ഈ ഫോറിയർ സീരീസ് ചെയ്തിട്ടുണ്ട് x2 ന്റെ ഫോറിയർ സീരീസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് അതിനാൽ ഫൊറിയർ സീരീസിൽ അവസാന പോയിന്റുകൾ ഉൾപ്പെടെ എല്ലാ കോസൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ കാരണം x2 ന്റെഫംഗ്ഷന് ഈ ഘടന ഉണ്ടായിരുന്നു അവസാന പോയിന്റുകളിലെ മൂല്യങ്ങളും തുല്യമാണ് അതിനാൽ അത് എല്ലായിടത്തും കൺവെർജ് ചെയ്യും പിന്നെ നമുക്ക് ഫോറിയർ സീരീസിന് തുല്യമായ x2 ഉണ്ട് ഇപ്പോൾ നമുക്ക് പർസേവൽസ് ഐഡന്റിറ്റി എഴുതാം അതിനാൽ ഇത് കോഎഫിഷ്യന്റിന്റെ ഈ റിലേഷന് തുല്യമാണെന്ന് പർസേവൽസ് സിദ്ധാന്തം പറയുന്നു കൂടാതെ ഇവിടെ നമുക്ക് x2 ഉണ്ട് അത് ഇടത് വശത്താണ് നമുക്ക് 1 ഉണ്ട് കൂടാതെ നമുക്ക് മുതൽ വരെ x4 x2 ഉണ്ട് വീണ്ടും സ്ക്വയർ ഉണ്ട് അപ്പോൾ x4 ആകും അതിനാൽ ഇത് 1 കൂടാതെ നമുക്ക് ഉണ്ട് അത് 2 55 ആകും മാത്രമല്ല ഈ റദ്ദാക്കപ്പെടും അതിനാൽ നമുക് 2 54 ലഭിക്കും വലതു വശത്ത് നമുക്ക് a022ഉണ്ട് മാത്രമല്ലേ a02 ആദ്യമേ ഇവിടെ തന്നിട്ടുണ്ട് അതിനാൽ a0 2 2 3ആണ് അപ്പോൾ നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 4 9ലഭിക്കും തുടർന്ന് 2 കൊണ്ട് അപ്പോൾ നമുക്ക് 4 4 18ലഭിക്കുംഅതും നല്ലതാണ് രണ്ടാമത്തെ ടേം പിന്നെ നമുക്ക് an2 ന്റെയും bn2 ന്റെയും സമ്മേഷൻ ഉണ്ട് bn2 ഇവിടെ 0 ആണ് നമുക്ക് an2 മാത്രമേയുള്ളുഅത് 16 n4ആണ് അതിനാൽ പർസേവൽസ് സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിച്ച ഫലമാണിത് അത് ഇപ്പോൾ നമുക്ക് 1n4 നൽകുന്നു സമ്മേഷൻ n ൽ നിന്ന് 1 മുതൽ വരെ തുല്യമാണ് നമുക്ക് ഈ പദങ്ങൾ ഇവിടെ കുറയ്ക്കണം തുടർന്ന് 16 കൊണ്ട് ഹരിക്കുക ഇപ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണ് നമുക്ക് വീണ്ടും പരിശോധിക്കാം അപ്പോൾ ഇത് ആണ് വലത് വശത്തു നമുക്ക് 16 അവിടെയുണ്ട് പിന്നെ അപ്പോൾ ഈ 4 90 നോട് കൂട്ടും അതിനാൽ നമുക്ക് 1n4അത് 4 90ക്ക് തുല്യമാണ് അതാണ് പർസേവൽസ് ഐഡന്റിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേരിട്ടുള്ള ഫലം കൂടാതെ ഇവിടെ നമ്മുടെ താൽപ്പര്യം ഈ സമ്മേഷൻ 114134 ലഭിക്കുക എന്നതാണ് കൂടാതെ മുമ്പ് ഉപയോഗിച്ച സമാനമായ ട്രിക്ക് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം ഈ സീരീസ് മുഴുവൻ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം ഈ ഓഡ്ഡ് പദങ്ങളും തുടർന്ന് ഈവൻ പദങ്ങളും ഈ സാഹചര്യത്തിൽ ഈ തുക നമുക്കെല്ലാവർക്കും ഇതിനകം അറിയാം ഇത് ലഭിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മാത്രമല്ല സമ്മേഷനിൽ നിന്ന്124 എടുത്ത് നമുക്ക് ഇത് വീണ്ടും വിഭജിക്കാം അതായത് 4 90 അതിനാൽ ഇപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഒന്നാമതായി നമുക്ക് 4 90ഈ തുക ഉണ്ട് അപ്പോൾ ഇതാണ് ആവശ്യമുള്ളത് നമ്മൾ ഇവിടെ കോമ്മൺ ഫാക്ടർ 124എടുക്കുന്നു എന്നിട്ട് നമുക്ക് ഈ സീരീസ് ഉണ്ട് അതിന്റെ തുക 90 ന് മുകളിലുള്ള പവർ 4 ആയി നൽകിയിരിക്കുന്നു അതിനാൽ ഇവിടെയും നമുക്ക് 4 90ഉണ്ട് അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് നേരിട്ട് S ലഭിക്കും ഇത് 15 16 4 90ആണ് വീണ്ടും ഇത് റദ്ദാവുകയും 4 96ലഭിക്കുകയും ചെയ്യും അതിനാൽ അതാണ് തുക വീണ്ടും ഈ പർസേവൽസ് ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ സങ്കീർണ്ണമായ തുകകൾ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ലെക്ചർ തയ്യാറാക്കാൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നമ്മൾ ആദ്യം ബെസ്സൽസ് ഇനിക്വാളിറ്റി ചർച്ച ചെയ്തു അത് ഇന്റെഗ്രേളുമായി ബന്ധപ്പെട്ട വളരെ തുച്ഛമായ ഫലം ആയിരുന്നു സ്ക്വയർസ് എപ്പോഴും നെഗറ്റീവ് അല്ല പിന്നെ ലളിതമായ കണക്കുകൂട്ടലുകളിലൂടെ ബെസ്സൽസ് ഇനിക്വാളിറ്റി എന്നറിയപ്പെടുന്ന ഈ ഇനിക്വാളിറ്റി നമുക്ക് ലഭിക്കും പിന്നീട് സമാന സാഹചര്യങ്ങളിൽ ഈ ഇനിക്വാളിറ്റി ഇക്വാളിറ്റിയിലേക്ക് സജ്ജമാക്കാൻ കഴിയുമെന്ന് പർസേവൽസ് ഐഡന്റിറ്റിയിലൂടെ നമ്മൾ മനസിലാക്കി ഇതിന് നിരവധി ആപ്ലിക്കേഷനുകൾ ഉള്ളതിനാൽ അവയിൽ ചിലത് വിവിധ സീരീസുകളുടെ തുക കണക്കുകൂട്ടുന്നതിനായി നമ്മൾ ഉപയോഗിച്ചു അതിനാൽ ഈ ലെക്ചറിൽ അത്രമാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു